ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസിലേക്ക് വീണ്ടും സ്വാഗതം എന്റെ പേര് ആരാധന മാലിക് ഈ കോഴ്സിൽ ഞാൻ നിങ്ങളെ സഹായിക്കുന്നു മാനവ വിഭവശേഷി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങൾ ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ പ്രഭാഷണങ്ങളിൽ ഒന്നാണ് ഇതിന് ശേഷം ഇനിയും നിരവധി വരാനുണ്ട് എന്നാൽ ഇത് അവസാനത്തേതിൽ ഒന്നാണ് കൂടാതെ ഈ പ്രഭാഷണത്തിൽ നമ്മൾ ഓർഗനൈസേഷനുകളിലെ അച്ചടക്കം എന്ന വിഷയം കൈകാര്യം ചെയ്യും ഹ്യൂമൻ റിസോഴ്സ് പ്രൊഫഷണലുകൾ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ജീവനക്കാരെ എങ്ങനെ സഹായിക്കാനാകും നിങ്ങൾ എവിടെയാണ് വര വരയ്ക്കുന്നത് മുതലായവ നമ്മൾ വളരെ പ്രവചനാതീതമായ ഒരു വിഷയത്തെ സ്പർശിക്കും ഞാൻ ആ പദം ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സെൻസിറ്റീവായ ഒരു പ്രശ്നം അതാണ് ഓർഗനൈസേഷനിലെ അച്ചടക്കത്തിന്റെ പ്രശ്നം നമുക്ക് അത് തുടരാം വീണ്ടും ചില റിസോഴ്സുകൾ ഞാൻ പലപ്പോഴും പരാമർശിച്ചിട്ടുള്ള രണ്ട് പുസ്തകങ്ങൾ കൂടാതെ ഞാൻ ഈ പുസ്തകങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് നിങ്ങൾക്കായി എന്റെ പക്കൽ ധാരാളം മെറ്റീരിയലുകൾ ഉണ്ട് പക്ഷേ ഈ പുസ്തകങ്ങൾ വിപണിയിൽ എളുപ്പത്തിൽ ലഭ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതിനാലാണ് ഞാൻ അവ പരാമർശിച്ചത് കൂടാതെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഈ പുസ്തകങ്ങളിലൂടെ കടന്നുപോകാം ഈ പുസ്തകങ്ങളിൽ ഞാൻ ചർച്ച ചെയ്തതും കൂടാതെ മറ്റു പലതും നിങ്ങൾക്ക് വായിക്കാനാകും ഈ പുസ്തകങ്ങൾ വളരെ മികച്ചതാണ് അവയ്ക്ക് ചെറിയ കേസലെറ്റുകളും മറ്റും ഉണ്ട് അതിനാൽ ഞാൻ പ്രാഥമികമായി പരാമർശിച്ച രണ്ട് പുസ്തകങ്ങൾ ഇവയാണ് ഒരു പെരുമാറ്റം മാറ്റേണ്ടതുണ്ടെന്ന് ജീവനക്കാരോട് ആശയവിനിമയം നടത്താൻ മാനേജർമാർ ആശ്രയിക്കുന്ന ഒരു ടൂൾ ആണ് അച്ചടക്കം ജീവനക്കാർ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ചെയ്യുന്നില്ലെങ്കിൽ ജീവനക്കാർ വേണ്ടത്ര പ്രകടനം നടത്താത്തപ്പോൾ അച്ചടക്കത്തിന്റെ ആവശ്യകത ഉയർന്നുവരുന്നു ഇനി അച്ചടക്കത്തിന്റെ വിവിധ രൂപങ്ങൾ നോക്കാം അച്ചടക്കം വിവിധ രൂപങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയും തുടർച്ചയായ ഇടപെടലുകളുള്ള പുരോഗമനപരമായ അച്ചടക്കമാണ് ഒന്ന് നിങ്ങൾ നിരവധി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു മാറ്റേണ്ട എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു തുടർന്ന് നിങ്ങൾ ജീവനക്കാരനെ വാക്കാൽ ഉപദേശിക്കുന്നു നിങ്ങൾ ജീവനക്കാരനെ നിങ്ങളുടെ ഓഫീസിലേക്ക് വിളിക്കുക കൂടാതെ നോക്കൂ നന്നായി പ്രവർത്തിക്കാൻ തുടങ്ങൂ എന്ന് നിങ്ങൾ പറയും അതിനാൽ നിങ്ങൾ ആദ്യം ജീവനക്കാരനുമായി ഒരു അനൌപചാരിക സംഭാഷണം ആരംഭിക്കുക തുടർന്ന് ജീവനക്കാരൻ തന്റെ പെരുമാറ്റം മാറ്റുകയോ തിരുത്തുകയോ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുന്ന വാക്കാലുള്ള മുന്നറിയിപ്പിലേക്ക് നീങ്ങുക എന്നാൽ എവിടെയും രേഖപ്പെടുത്തരുത് കൂടാതെ നിങ്ങൾ കുറഞ്ഞത് തീയതിയുടെയും സമയത്തിന്റെയും റെക്കോർഡ് സൂക്ഷിക്കുക അതിനാൽ നിങ്ങൾക്ക് ജീവനക്കാരനുമായി ഒരു മീറ്റിംഗിന് വിളിക്കാം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കോർഡ് ഉണ്ടാക്കാം ജീവനക്കാരൻ ഇപ്പോഴും തന്റെ പെരുമാറ്റം തിരുത്തിയില്ലെങ്കിൽ നിങ്ങൾ ജീവനക്കാരന് രേഖാമൂലമുള്ള മുന്നറിയിപ്പ് നൽകുന്നു എന്നിട്ടും പെരുമാറ്റം മാറിയില്ലെങ്കിൽ നിങ്ങൾ സസ്പെൻഷൻ ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യും കൂടാതെ പ്രതീക്ഷിച്ചതൊന്നും ചെയ്യാത്തതിന് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് ചെയ്യാൻ ശ്രമിയ്ക്കുക പോലും ചെയ്തില്ല എന്നതിന് ജീവനക്കാരൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഒടുവിൽ ജീവനക്കാരൻ അവളുടെ അല്ലെങ്കിൽ അവന്റെ ചുമതലകളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടും ഇതെല്ലാം വളരെ സാന്ദർഭികമാണ് പക്ഷേ പുരോഗമനപരമായ അച്ചടക്കം പ്രധാനമായും സൂചിപ്പിക്കുന്നത് അച്ചടക്കം ഉറപ്പാക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു ജീവനക്കാരന്റെ പ്രവർത്തനങ്ങൾ ശരിയാക്കുന്നതിനോ ഉള്ള ഒരു ഘട്ടം പിന്തുടരുന്നതിനെയാണ് ജീവനക്കാരൻ അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്തും ചെയ്യാൻ തുടങ്ങും അപ്പോൾ ജീവനക്കാരെ അച്ചടക്കമുള്ളവരാക്കുന്നതിനുള്ള മറ്റൊരു മാർഗം പോസിറ്റീവ് അച്ചടക്കമാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് അവരുടെ സ്വന്തം പെരുമാറ്റം നിരീക്ഷിക്കാനും അവരുടെ പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു ഇപ്പോൾ പുരോഗമനപരമായ അച്ചടക്കം പിന്തുണയ്ക്കണമെന്നില്ല പക്ഷേ പോസിറ്റീവ് അച്ചടക്കത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ശരിയാക്കാൻ ജീവനക്കാരെ സഹായിക്കുന്ന ഒരു പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്തും ചെയ്യാൻ അവരെ സഹായിക്കുന്നു അവരുടെ ഏറ്റവും മികച്ച പ്രകടനം നടത്താൻ അവരെ സഹായിക്കുന്നു ഇത് വീണ്ടും നാല് ഘട്ട പ്രക്രിയയാണ് വീണ്ടും ഇത് ഒരു നിർദ്ദേശം മാത്രമാണ് ഇവ സ്ഥാപിത കാര്യങ്ങളല്ല ജീവനക്കാരെ അച്ചടക്കത്തിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ മാർഗം ഉണ്ടായിരിക്കാം പക്ഷേ ഈ കാര്യങ്ങൾ കറുപ്പും വെളുപ്പും ഇടുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് അതിനാൽ പോസിറ്റീവ് അച്ചടക്കം പ്രധാനമായും ആരംഭിക്കുന്നത് ജീവനക്കാരും അവരുടെ സൂപ്പർവൈസർമാരും തമ്മിലുള്ള കീഴുദ്യോഗസ്ഥരും അവരുടെ ഉടനടി സൂപ്പർവൈസർമാരും തമ്മിലുള്ള ഒരു കൌൺസിലിംഗ് സെഷനിലാണ് അതിനു ശേഷവും കാര്യങ്ങൾ മാറുന്നില്ലെങ്കിൽ തുടർയോഗവും പുതിയ ടൈംടേബിളും പ്ലാനും രൂപീകരിക്കും ജീവനക്കാരന് നിർദ്ദേശിച്ചതെന്തും പിന്തുടരുന്നുണ്ടോ ഇല്ലയോ എന്ന് സൂപ്പർവൈസർ നോക്കുന്നു പിന്നെ ഒരു അന്തിമ മുന്നറിയിപ്പ് ഉണ്ട് കൂടാതെ ഒരു ഡിസ്ചാർജ് ഉണ്ട് സസ്പെൻഷൻ ഇല്ല പക്ഷേ ഒരാളുടെ പെരുമാറ്റം വിജയിക്കാനും മാറ്റാനും നിങ്ങൾ ജീവനക്കാരന് എല്ലാ അവസരങ്ങളും എല്ലാ പിന്തുണയും നൽകുന്നു യുക്തിരഹിതമായ ബുദ്ധിമുട്ടുള്ള പെരുമാറ്റങ്ങളുടെ വിവിധ രൂപങ്ങൾ നിലവിലുണ്ട് അവ ഓരോന്നും നമ്മൾ പിന്നീട് കൂടുതൽ വിശദമായി കൈകാര്യം ചെയ്യും പക്ഷേ അപ്രതീക്ഷിതമായ പെരുമാറ്റം കൈകാര്യം ചെയ്യുന്നതിനുള്ള പൊതു നടപടിക്രമങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അച്ചടക്ക നടപടിക്രമങ്ങൾ ആവശ്യമായിരിക്കുന്നത് എന്തുകൊണ്ട് അച്ചടക്ക നടപടിക്രമങ്ങൾ ആവശ്യമാണ് അതിനാൽ പ്രകടനത്തിലോ പെരുമാറ്റത്തിലോ തങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജീവനക്കാർക്ക് അറിയാം അവരിൽ നിന്ന് സംഘടന എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് അവർ അറിയണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ അറിയേണ്ടതുണ്ട് കൂടാതെ എന്ത് സ്വീകാര്യമായിരിക്കും സ്വീകാര്യമല്ലാത്തത് എന്തൊക്കെ തുടങ്ങിയവ അറിയേണ്ടതുണ്ട് കൂടാതെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവർ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതിനാൽ ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ പ്രക്രിയയിൽ പാലിക്കേണ്ട വ്യക്തമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് കൂടാതെ അച്ചടക്ക നടപടിക്രമങ്ങൾ ആവശ്യമായി വരുന്നതിന്റെ മറ്റൊരു കാരണം തിരിച്ചറിയാൻ വ്യക്തികൾക്ക് ആവശ്യമായ മാനദണ്ഡങ്ങൾ കൈവരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ തിരിച്ചറിയുക എന്നതാണ് അതിനാൽ ആരെങ്കിലും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നാൽ എന്തെങ്കിലും കാരണവശാൽ ജീവനക്കാരന് നന്നായി പ്രവർത്തിക്കാൻ കഴിയില്ലയെങ്കിൽ നിങ്ങൾ അച്ചടക്ക പ്രക്രിയ ആരംഭിക്കുമ്പോൾ പ്രാരംഭ അവസ്ഥയിൽ വാക്കാലുള്ള മുന്നറിയിപ്പ് ആവും ചില ജീവനക്കാർക്ക് അവരുടെ സൂപ്പർവൈസർമാരുടെ അടുത്തേക്ക് വരുന്നത് അത്ര സുഖകരമല്ലായിരിക്കാം ഒപ്പം എന്തോ ശരിയല്ലെന്ന് അവരോട് പറയുന്നു അവർക്ക് ഞെരുക്കം അനുഭവപ്പെടുന്നില്ല അവർക്ക് അസ്വസ്ഥത തോന്നുന്നു പിന്നെ അവർക്ക് പ്രകടനം നടത്താൻ കഴിയുന്നില്ല എന്നിട്ട് അവർ അവരുടെ അടുത്തേക്ക് വരുന്നു നിങ്ങൾക്കറിയാമോ അച്ചടക്ക പ്രക്രിയയിൽ ഇത് ജീവനക്കാരനുള്ള അച്ചടക്കമാണെന്ന് നിങ്ങൾ കരുതിയേക്കാം ഇത് ഒരു ഫീഡ്ബാക്ക് സെഷനായിരിക്കാം നിങ്ങൾ ജീവനക്കാരനെ വിളിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കാം കൂടാതെ ആ സമയം ജീവനക്കാരൻ താൻ എന്താണെന്ന് പറയുന്നു ഈ പ്രത്യേക സോഫ്റ്റ്വെയർ പാക്കേജ് ഉപയോഗിക്കാനോ എങ്ങനെ ചെയ്യണമെന്നോ തനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് കരുതുന്നില്ല എന്ന് പറയുന്നു അതിനാൽ പരിശീലന ആവശ്യകതകൾ വെളിപ്പെടുത്തുന്നു തൊഴിൽ ആവശ്യകതകളുടെ വ്യക്തതയുടെ അഭാവം ചിലപ്പോൾ തങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജീവനക്കാർക്ക് അറിയില്ല യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് മാനേജ്മെന്റ് ഫീൽഡിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഉയരത്തിൽ പോകുന്തോറും നിങ്ങൾ കൂടുതൽ അവ്യക്തനാകും ഉയർന്ന നിലയിലെത്തുമ്പോൾ ജോലി ആവശ്യകതകളെ സംബന്ധിച്ച വ്യക്തതയുടെ അഭാവം കുറയും അതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ജീവനക്കാരനോട് ചോദിക്കുന്ന പ്രക്രിയയിൽ എന്തുകൊണ്ടാണ് ജീവനക്കാരൻ സാധ്യതകൾക്കനുസരിച്ച് പ്രവർത്തിക്കാത്തത് ജോലി ആവശ്യകതകളിൽ വ്യക്തതയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയേക്കാം ഒരുപക്ഷേ ജീവനക്കാരന് അധിക പിന്തുണ ആവശ്യമായി വന്നേക്കാം ഒരുപക്ഷേ ജീവനക്കാരന് ചില വഴക്കങ്ങൾ ആവശ്യമായി വന്നേക്കാം ഒരു വ്യക്തിയുടെ പ്രകടനത്തിലോ പെരുമാറ്റത്തിലോ മെച്ചപ്പെടുത്തുന്നതിന് അനുയോജ്യമായ ലക്ഷ്യങ്ങളും സമയ സ്കെയിലുകളും അംഗീകരിക്കാനുള്ള അവസരമായി ചില വഴക്കങ്ങൾ ആവശ്യമാണ് ചില സമയങ്ങളിൽ ജീവനക്കാർക്ക് അവർ ചെയ്യുന്നതെന്തും മെച്ചപ്പെടുത്താനുള്ള അവസരം നൽകേണ്ടതുണ്ട് നിങ്ങൾ മികച്ച പ്രകടനം നടത്തുന്നില്ലെന്ന് അവരോട് പറഞ്ഞുകൊണ്ട് മെച്ചപ്പെടുത്താൻ നിങ്ങൾ അവർക്ക് കുറച്ച് അവസരം നൽകേണ്ടതുണ്ട് എംപ്ലോയ്മെന്റ് ട്രിബ്യൂണലിന്റെ ഒരു പോയിന്റ് ഓഫ് റഫറൻസ് എന്ന നിലയിൽ തങ്ങളെ പിരിച്ചുവിട്ട രീതിയെക്കുറിച്ച് ആരെങ്കിലും പരാതി നൽകണം ജീവനക്കാരിൽ നിന്ന് നിങ്ങൾക്ക് വിവിധ രൂപത്തിലുള്ള ഫീഡ്ബാക്ക് എടുക്കാം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് പക്ഷേ അച്ചടക്കനടപടികൾക്കിടയിൽ മാത്രമാണ് നമ്മൾ ഇരുന്നു എന്താണ് സംഭവിക്കുന്നതെന്നും എന്ത് കൊണ്ട് കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടന്നില്ല എന്നും വിലയിരുത്തുമ്പോൾ പ്രത്യേകിച്ച് പുരോഗമനപരമായ ഒരു അച്ചടക്ക നടപടിക്രമത്തിൽ എന്താണ് വേണ്ടത് ആവശ്യമില്ലാത്തത് എന്താണ് എന്നിവ നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ നമ്മൾ യഥാർത്ഥത്തിൽ എല്ലാം രേഖപ്പെടുത്തുന്നു കൂടാതെ മോശം പ്രകടനം കാരണം അധാർമ്മികവും നിയമവിരുദ്ധവുമായ പെരുമാറ്റം വിവിധ കാര്യങ്ങൾ എന്നിവ കാരണം ആരെയെങ്കിലും പിരിച്ചുവിടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് പിന്നോട്ട് പോകാവുന്ന ചില ഡോക്യുമെന്റേഷൻ ഉണ്ട് അച്ചടക്കത്തിന്റെ അടിസ്ഥാന മാനദണ്ഡങ്ങൾ അച്ചടക്കത്തിൽ പിന്തുടരുന്ന ചില മാനദണ്ഡങ്ങളിൽ ഒന്നാണ് നിയമങ്ങളുടെയും പ്രകടന മാനദണ്ഡങ്ങളുടെയും ആശയവിനിമയം അതിനാൽ ഇവ തികച്ചും വ്യക്തമായിരിക്കണം വസ്തുതകളുടെ ഡോക്യുമെന്റേഷൻ തികച്ചും ആവശ്യമാണ് കൂടാതെ നിയമ ലംഘനങ്ങളോടുള്ള സ്ഥിരമായ പ്രതികരണം ഓരോ ജീവനക്കാരനെയും അഡ്മിനിസ്ട്രേഷൻ ഒരേ രീതിയിൽ തന്നെ പരിഗണിക്കണം കൂടാതെ നിങ്ങളുടെ അച്ചടക്ക നടപടികളുടെ രേഖകൾ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ലംഘനങ്ങളെ ഓർഗനൈസേഷൻ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ സ്ഥിരത ഉറപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയും അതിനാൽ ഈ നടപടിക്രമങ്ങൾ ആവശ്യമാണ് കൂടാതെ നിങ്ങൾ പിന്തുടരുന്ന ചില മാനദണ്ഡങ്ങൾ ഇവയാണ് നിങ്ങൾ ജീവനക്കാരോട് അന്യായമായി പെരുമാറുന്നില്ല നിങ്ങൾ ജീവനക്കാരോട് വ്യത്യസ്തമായി പെരുമാറുന്നില്ല നിങ്ങൾ അവരെ പരസ്പരം തുല്യമായി പരിഗണിക്കുന്നു അച്ചടക്കത്തിന്റെ ന്യായമായ കാരണ നിലവാരം അച്ചടക്കത്തിന്റെ അടിസ്ഥാന മിനിമം മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഒരു മാർഗം ജീവനക്കാരെ അച്ചടക്കമാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മേൽ ഹ്യൂമൻ റിസോഴ്സ് ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ നമുക്കുള്ള അധികാരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനാൽ നമ്മൾ പറയുന്നു നിങ്ങൾ ഇത് ചെയ്യുന്നില്ല നിങ്ങൾ പ്രതീക്ഷിച്ചത് ചെയ്തില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ചെയ്യാൻ കഴിയുന്നത് ഇതാണ് പക്ഷേ ആ അധികാരം ഉപയോഗിച്ച് ഞങ്ങളുടെ എല്ലാ ജീവനക്കാർക്കും അവരുടെ ജോലിയിൽ വിജയിക്കാൻ മതിയായ അവസരം നൽകുന്നതിന് നീതിപൂർവ്വം പെരുമാറുക എന്ന വളരെ വലിയ ഉത്തരവാദിത്തവും ഞങ്ങൾ ഏറ്റെടുക്കുന്നു അതിനാൽ ന്യായമായ കാരണം എന്ന് പറയുമ്പോൾ ജോലിസ്ഥലത്ത് അച്ചടക്കം ഉറപ്പാക്കിക്കൊണ്ട് കഴിയുന്നത്ര ധാർമ്മികമായിരിക്കാൻ ഞങ്ങളുടെ കഴിവിനുള്ളിൽ എല്ലാം ചെയ്യുന്നു എന്നാണ് ഞങ്ങൾ അർത്ഥമാക്കുന്നത് കൂടാതെ നിങ്ങൾ അച്ചടക്കം ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ വിവിധ കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് അച്ചടക്കത്തിന്റെ ന്യായമായ കാരണ മാനദണ്ഡം പ്രസ്താവിക്കുന്നു അയാളുടെ അല്ലെങ്കിൽ അവളുടെ പെരുമാറ്റത്തിന്റെ അച്ചടക്ക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജീവനക്കാരന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നോ ജീവനക്കാരൻ വേണ്ടത്ര പ്രകടനം നടത്തിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ജീവനക്കാരന് അറിയാമോ ജീവനക്കാർക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ജീവനക്കാരനോട് നീതി കാണിക്കുന്നില്ല ന്യായമായ ഭരണം ജീവനക്കാരൻ ലംഘിച്ച നിയമം സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനങ്ങളുമായി ന്യായമായും ബന്ധപ്പെട്ടിരുന്നു അമിതമായ പ്രതികരണം ഒരാളെ ശിക്ഷിക്കുന്നതിനുള്ള ഒരു കാരണമായിരിക്കരുത് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല ഒരു ജീവനക്കാരനെ അച്ചടക്കത്തോടെ പുറത്താക്കുന്നതിന് അത് ഒരു കാരണമായിരിക്കരുത് പക്ഷേ ജീവനക്കാരന്റെ പ്രവർത്തനങ്ങൾ യഥാർത്ഥമായും സത്യമായും ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ന്യായമായ കാരണമുണ്ട് കൂടാതെ ഈ കാര്യങ്ങൾ ഓർഗനൈസേഷനെ എത്രമാത്രം ബാധിക്കുന്നുവെന്നത് ജീവനക്കാരന് അറിയാം അതിനാൽ ശിക്ഷണം വളരെ കുറവായിരിക്കരുത് അത് അധികമാകാൻ പാടില്ല അത് ശരിയായിരിക്കണം കൂടാതെ അത് അച്ചടക്കത്തിന് മുമ്പുള്ള ന്യായമായ അന്വേഷണമായിരിക്കണം ജീവനക്കാരനെതിരെ എന്തെങ്കിലും നടപടിയെടുക്കുന്നതിന് മുമ്പ് സ്വയം പ്രതിരോധിക്കാൻ ജീവനക്കാരന് ന്യായമായ അവസരം നൽകുക തന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാൻ ജീവനക്കാരന് അവസരം നൽകുക നിങ്ങൾ പറയുന്നു ശരി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് മതിയായ തെളിവുണ്ട് ജോലിക്കാരന് അവളുടെയോ അവന്റെയോ കഥയുടെ വശം അവതരിപ്പിക്കാൻ മതിയായ അവസരം നൽകുക ജോലിക്കാരൻ അവൾ അല്ലെങ്കിൽ അവൻ എന്തു ചെയ്തുവെന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ മതിയായ അവസരം ജീവനക്കാരന് നൽകുക ബോധപൂർവം തെറ്റ് ചെയ്യാൻ ആരും ആഗ്രഹിക്കുന്നില്ല ഓരോരുത്തർക്കും അവർ ചെയ്യുന്നതെന്തും ചെയ്യാൻ ഒരു കാരണമുണ്ട് അതിനാൽ നിങ്ങളിൽ പലരും അതിനെ എതിർത്തേക്കാം പക്ഷേ തെളിയിക്കപ്പെടാതെ കുറ്റക്കാരനല്ല എന്ന പഴയ പഴഞ്ചൊല്ലിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കൂടാതെ നിങ്ങൾ മറ്റൊരു തരത്തിൽ തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരനല്ലെന്ന് നിയമം പറയുന്നു ഏതെങ്കിലും അച്ചടക്ക സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് ഒരു പ്രശ്നം അന്വേഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും ഒരു സ്ഥാപനം സ്വീകരിക്കണം എന്നാണ് ഇതിനർത്ഥം ന്യായമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം അത് ജീവനക്കാരന് അനുകൂലമോ പ്രതികൂലമോ ആകരുത് കുറ്റത്തിന്റെ തെളിവ് അന്വേഷണത്തിൽ കാര്യമായ തെളിവുകളോ കുറ്റത്തിന്റെ തെളിവുകളോ ലഭിച്ചോ വീണ്ടും ഞാൻ പറഞ്ഞത് പോലെ തെളിയിക്കപ്പെടാതെ കുറ്റക്കാരനല്ല അച്ചടക്ക നടപടിക്രമങ്ങൾ ഒരു ജീവനക്കാരന്റെ മനോവീര്യത്തിന് വളരെ ദോഷകരമാണ് ജീവനക്കാരുടെ ഉൽപ്പാദനക്ഷമതയിലേക്കുള്ള വഴിയെ വളരെ ദോഷകരമായി ബാധിക്കും സംഘടനയുടെ മൊത്തത്തിലുള്ള കാലാവസ്ഥയെ ദോഷകരമായി ബാധിക്കാം അതിനാൽ ശരിയായ ഡോക്യുമെന്റേഷൻ ആവശ്യമാണ് ന്യായമായ നടപടിക്രമങ്ങൾ ആവശ്യമാണ് വിവേചനത്തിന്റെ അഭാവം അച്ചടക്ക നടപടിയുടെ നിയമങ്ങളും ഉത്തരവുകളും പിഴകളും തുല്യമായും വിവേചനമില്ലാതെയും പ്രയോഗിക്കുന്നു ഈ ചോദ്യം സ്വയം ചോദിക്കുക ജീവനക്കാരനോട് ഞാൻ ഏതെങ്കിലും തരത്തിൽ ജീവനക്കാരനോട് പെരുമാറിയ രീതിയിലൂടെയോ അല്ലെങ്കിൽ അന്തിമഫലത്തിലൂടെയോ വിവേചനം കാണിച്ചിട്ടുണ്ടോ മുൻ പ്രഭാഷണത്തിൽ വിവേചനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു അതിനാൽ ഞാൻ ഇനി അതിലേക്ക് കടക്കില്ല അച്ചടക്ക പിഴ നിയമലംഘനത്തിന്റെ ഗൌരവവുമായി ന്യായമായും ബന്ധപ്പെട്ടിരുന്നോ അതിനാൽ ലംഘനം അത്രക്ക് ഗുരുതരമാണോ കൂടാതെ നിങ്ങൾ നൽകുന്ന ശിക്ഷ നൽകേണ്ടതിനേക്കാൾ വളരെ കൂടുതലാണോ അതോ ഉണ്ടായിരിക്കേണ്ടതിനേക്കാൾ വളരെ കുറവാണോ അല്ലെങ്കിൽ അത് ശരിയാണോ അത് വാറന്റ് ചെയ്തിട്ടുണ്ടോ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡിസിപ്ലിൻ നിങ്ങൾക്ക് അച്ചടക്കം നൽകാനാകുന്ന ഒരു മാർഗം ഹോട്ട് സ്റ്റവ് റൂൾ ആണ് അച്ചടക്ക നടപടിയുടെ മാതൃക അച്ചടക്കം ഉടനടി ആയിരിക്കണം ഇത് മതിയായ മുന്നറിയിപ്പ് നൽകുകയും ചൂടുള്ള അടുപ്പ് പോലെ എല്ലാവരിലും സ്ഥിരമായി പ്രയോഗിക്കുകയും വേണം ഒരു അടുപ്പ് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം കൂടാതെ നിങ്ങൾ അടുപ്പിലേക്ക് പോകുമ്പോൾ ഇരുമ്പ് ചൂടാകുമ്പോൾ അത് പ്രസരിക്കുന്നു അതിനാൽ ഈ നിയമം അനുസരിച്ച് നിങ്ങൾ അച്ചടക്കം പാലിക്കണം നിയമവിരുദ്ധമോ അപ്രതീക്ഷിതമോ ആയ പ്രവൃത്തി ചെയ്യുമ്പോൾ അച്ചടക്ക നടപടിക്രമം നടക്കണം വിധ്വംസക പ്രവർത്തനം നടന്നപ്പോൾ വിനാശകരമായ പ്രവർത്തനം നടത്തിയ സമയത്തിനും നടപടി സ്വീകരിച്ചതിനും ഇടയിൽ അധികം വിടവ് ഉണ്ടാകരുത് അതിനാൽ അന്വേഷണം ഉടൻ ആരംഭിക്കണം കൂടാതെ ജീവനക്കാരനെ കൌൺസിലിംഗ് ചെയ്യണം അല്ലെങ്കിൽ പ്രക്രിയ ഉടൻ ആരംഭിക്കണം ഒഴിവാക്കേണ്ട ചില തെറ്റുകൾ ശിക്ഷണം നൽകുമ്പോൾ നിങ്ങളുടെ കോപം നഷ്ടപ്പെടരുത് നിങ്ങൾ അച്ചടക്കം പാലിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ കോപം നഷ്ടപ്പെടരുത് കാര്യങ്ങൾ സമചിത്തതയോടെ ചെയ്യുക കാര്യങ്ങൾ ചെയ്യുക സാഹചര്യം വിലയിരുത്തുക നിങ്ങൾ സാഹചര്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവായിരിക്കുക അച്ചടക്ക നടപടി പൂർണ്ണമായും ഒഴിവാക്കരുത് പ്ലേ തെറാപ്പിസ്റ്റ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് തെറാപ്പിസ്റ്റ് കളിക്കുന്നത് നിങ്ങൾ ഒരു തെറാപ്പിസ്റ്റല്ല നിങ്ങളൊരു ഭരണാധികാരിയാണ് അതിനാൽ നിങ്ങൾ ഒരു തെറാപ്പിസ്റ്റിന്റെ റോൾ കളിക്കാനും കൌൺസിലിംഗിലേക്ക് പോകാനും ശ്രമിക്കരുത് പ്രതീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാത്തതും സംബന്ധിച്ച് ജീവനക്കാരനെ കൌൺസിലിംഗ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഒരു തെറാപ്പിസ്റ്റിന്റെ റോൾ കളിക്കുന്നത് നിങ്ങളെ വഞ്ചിക്കാൻ കഴിയുന്ന ഒരാളായി കാണപ്പെടാനുള്ള അപകടത്തിലാണ് കൂടാതെ അത് ചെയ്യാൻ പാടില്ല ഒരു ജീവനക്കാരന് ഒഴികഴിവ് പറയുന്നത് ജീവനക്കാരന്റെ കാഴ്ചപ്പാട് കാണാൻ നല്ലതാണ് പക്ഷേ മതിയായ തെളിവ് ലഭിക്കുന്നതുവരെ ജീവനക്കാരൻ പറയുന്നതെന്തും പൂർണ്ണമായി സ്വീകരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല ഉടനടി ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട് അച്ചടക്കത്തിന് പുരോഗമനപരമല്ലാത്ത സമീപനം ഉപയോഗിക്കുന്നത് പുരോഗതിയാണ് നിങ്ങൾ ഉടനടി ശിക്ഷ ഒഴിവാക്കണം നിഗമനങ്ങളിൽ എത്തിച്ചേരരുത് എന്ത് പറഞ്ഞാലും വഴങ്ങരുത് നിങ്ങൾ ചെയ്യേണ്ടതെന്തും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക നിശ്ചയിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുടെ പരമ്പര പിന്തുടരുക വാക്കാലുള്ള മുന്നറിയിപ്പും രേഖാമൂലമുള്ള മുന്നറിയിപ്പും നൽകുക ഒരുപക്ഷേ സസ്പെൻഷനും ഡിസ്ചാർജും വേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ ഒരു കൌൺസിലിംഗ് സെഷൻ നടത്തുക ഒരു ഫീഡ്ബാക്ക് സെഷൻ നടത്തുക എന്നിട്ട് ഒരു മുന്നറിയിപ്പ് നൽകുക തുടർന്ന് ഒടുവിൽ ജീവനക്കാരനെ ഡിസ്ചാർജ് ചെയ്യുക പക്ഷേ ഘട്ടങ്ങളുടെ ശ്രേണി പിന്തുടരുക ഫലപ്രദമായ അച്ചടക്ക സെഷനുകൾക്കുള്ള ചില സ്റ്റെപ്പുകൾ അച്ചടക്കം ആവശ്യമാണോ എന്ന് നിർണ്ണയിക്കുക അച്ചടക്കം യഥാർത്ഥത്തിൽ ആവശ്യമാണോ എന്ന് കണ്ടെത്തുക പ്രശ്നം ഒറ്റപ്പെട്ട ലംഘനമാണോ അതോ പാറ്റേണിന്റെ ഭാഗമാണോ ഇത് ഒരു അനിവാര്യത കാരണമാണോ അതോ ജീവനക്കാരൻ യുക്തിരഹിതമായ പെരുമാറ്റത്തിൽ ആവർത്തിച്ച് ഏർപ്പെടുകയാണോ എന്ന് കണ്ടെത്തുക ഇത് കേവലം ഒരു അനിവാര്യത മൂലമാണെങ്കിൽ നിങ്ങൾ ഒരു അച്ചടക്ക നടപടിയും എടുക്കേണ്ടതില്ല ഒരുപക്ഷേ ചില അടിയന്തരാവസ്ഥ കാരണം ജീവനക്കാരൻ യുക്തിരഹിതമായി പെരുമാറി പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് ജീവനക്കാരൻ പെരുമാറിയത് അതിനാൽ ദയവായി അത് കണ്ടെത്തുക നിങ്ങളുടെ ജീവനക്കാരോട് കുറച്ചുകൂടി അനുകമ്പ കാണിക്കുക ഒരു അച്ചടക്ക തീരുമാനം എടുക്കുന്നതിന് മുമ്പ് മാനവ വിഭവശേഷി വിദഗ്ധരുമായി കൂടിയാലോചിച്ച് ചില ഫീഡ്ബാക്ക് നേടുക ആവശ്യമെങ്കിൽ നിങ്ങളുടെ അഭിഭാഷകരുമായി ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാരംഭ പരാമർശങ്ങളിൽ ചർച്ചയ്ക്കുള്ള വ്യക്തമായ ലക്ഷ്യങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുക നിങ്ങൾ ഒരു അച്ചടക്ക റിപ്പോർട്ട് എഴുതുമ്പോഴെല്ലാം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക പരോക്ഷ ആശയവിനിമയത്തിൽ ആശ്രയിക്കരുത് അല്ലെങ്കിൽ മുൾപടർപ്പിനെ കുറിച്ച് അടിക്കുക മെച്ചപ്പെടുത്തലിനായി നിങ്ങളുടെ പ്രതീക്ഷകളെക്കുറിച്ച് ജീവനക്കാരന് വ്യക്തമായ ആശയം നേടണം ഭാവിയിൽ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജീവനക്കാർ അറിഞ്ഞിരിക്കണം എന്താണ് ആവശ്യമെന്ന് നിങ്ങൾ ജീവനക്കാരനോട് പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോയി ജോലിക്കാരൻ അവൾ അല്ലെങ്കിൽ അവൻ ചെയ്തതെന്തായാലും നിങ്ങൾ ജീവനക്കാരനെ വിളിക്കുക അവരെ ഉപദേശിക്കുക എന്നാൽ പിന്നീട് നിങ്ങൾ ഒരു റിപ്പോർട്ട് എഴുതുമ്പോൾ നിങ്ങൾ ജീവനക്കാരനോട് സംസാരിക്കുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും എപ്പോഴാണെന്നും കൂടാതെ ഈ പ്രതീക്ഷകൾ നിറവേറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നും ജീവനക്കാരൻ വ്യക്തമായി മനസ്സിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക രണ്ട് വഴിയുള്ള ആശയവിനിമയം ഉറപ്പാക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ജീവനക്കാർക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല അച്ചടക്ക സെഷനിൽ അവർ അതിനെക്കുറിച്ച് കണ്ടെത്തുന്നു അപ്പോഴാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു അവർ പരിഹസിക്കപ്പെട്ടതായി അവർക്ക് തോന്നുന്നു തങ്ങളെ ഇറക്കിവിട്ടതായി അവർക്ക് തോന്നുന്നു പിന്നെ അവിടെ അത് ഉൽപ്പാദനക്ഷമതയുടെ അഭാവത്തെയും അവരിലെ മനോവീര്യമില്ലായ്മയേയും വർദ്ധിപ്പിക്കുന്നു അതിനാൽ എച്ച്ആർ പ്രൊഫഷണലുകൾ എന്ന നിലയിൽ നമ്മളുടെ ജോലി ആളുകളെ താഴ്ത്തുക എന്നതല്ല എന്ത് വില കൊടുത്തും വിജയിക്കാൻ അവരെ സഹായിക്കാനാണിത് എന്ത് വിലകൊടുത്തും അല്ല കഴിയുന്നത്ര ന്യായമായ രീതിയിൽ അതിനാൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ജീവനക്കാരന് നമ്മളുടെ അടുത്തേക്ക് വരാൻ സുഖമുണ്ടെന്ന് ഉറപ്പാക്കുക എന്നതാണ് കൂടാതെ തീർച്ചയായും നമുക്ക് രേഖകൾ സൂക്ഷിക്കേണ്ടതുണ്ട് കൂടാതെ നമ്മൾ സുരക്ഷിതരായിരിക്കണം പക്ഷേ ജീവനക്കാരനെ താഴെയിറക്കാതിരിക്കാൻ ജീവനക്കാരനെ പിന്തുണയ്ക്കാൻ നമ്മൾ ഉണ്ടെന്നും ജീവനക്കാരൻ മനസ്സിലാക്കിയിരിക്കണം അതിനാൽ ടു വേ ആശയവിനിമയത്തിന്റെ ചാനൽ തുറന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ഒരു ഫോളോ അപ്പ് പ്ലാൻ സ്ഥാപിക്കുക ഒരു ഫോളോ അപ്പ് പ്ലാനിലേക്കുള്ള കരാർ പുരോഗമനപരവും നല്ലതുമായ അച്ചടക്ക നടപടിക്രമങ്ങളിൽ നിർണായകമാണ് നിങ്ങൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ എന്തുതന്നെയായാലും ജീവനക്കാരൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് ജീവനക്കാരൻ അറിഞ്ഞിരിക്കണം കൂടാതെ പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ലെങ്കിൽ നിങ്ങൾ ഇടപെടും കൂടാതെ ആ സാഹചര്യത്തിൽ നിങ്ങൾ എപ്പോൾ ഇടപെടുമെന്ന് ജീവനക്കാരന് അറിയേണ്ടതുണ്ട് നിങ്ങൾ എങ്ങനെ ഇടപെടും പ്രതീക്ഷകൾ നിറവേറ്റപ്പെടാത്തതിന്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ് ജോലിക്കാരന് അവളിൽ നിന്നോ അവനിൽ നിന്നോ പ്രതീക്ഷിക്കുന്നത് ചെയ്യുന്ന സമയത്ത് ജീവനക്കാരന് കുറച്ച് പിന്തുണ ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയാണ് ജീവനക്കാരന് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുക കൂടാതെ ജീവനക്കാരന് നിങ്ങളിൽ നിന്ന് എന്ത് തരത്തിലുള്ള പിന്തുണ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അതിനാൽ ഇവയെല്ലാം വ്യക്തമായി നിർവചിക്കേണ്ടതാണ് കൂടാതെ ജോലിക്കാരന് അവളുടെ അല്ലെങ്കിൽ അവന്റെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് ന്യായമായ അവസരം ലഭിക്കുന്നതിന് സമയരേഖകൾ വ്യക്തമായി നിർവചിച്ചിരിക്കണം ഒരു പോസിറ്റീവ് നോട്ടിൽ അവസാനിപ്പിക്കുക ഒരിക്കലും ഒരു അച്ചടക്ക സെഷൻ നെഗറ്റീവ് നോട്ടിൽ അവസാനിപ്പിച്ച് നിങ്ങൾ മോശമാണ് നിങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ പറയരുത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഒരിക്കലും നിങ്ങളുടെ വിരൽ ഉപയോഗിച്ച് നിങ്ങൾ തീർത്തും ഉപയോഗശൂന്യനാണ് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയരുത് ജോലിസ്ഥലത്തെ ഭീഷണിപ്പെടുത്തലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുമെന്ന് ഞാൻ അർത്ഥമാക്കുന്നു ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ജീവനക്കാരന്റെ മനോവീര്യം ശരിക്കും താഴ്ത്താൻ കഴിയും നിങ്ങൾക്കറിയാമോ തീർച്ചയായും അതിന്റെ സാമ്പത്തിക വശം ഒരു പുതിയ ജീവനക്കാരനെ നിയമിക്കുന്നതിനുള്ള ചെലവ് വളരെ ഉയർന്നതായിരിക്കും കൂടാതെ നിങ്ങൾ ഒരു ജോലിക്കാരനെ അയാൾക്ക് ശരിയായ അവസരം നൽകാതെ പിരിച്ചുവിടുകയാണെങ്കിൽ നിയമപരമായ കേസുകൾക്ക് നിങ്ങൾ ബാധ്യസ്ഥനാകാം പക്ഷേ ഒരു മനുഷ്യനെന്ന നിലയിൽ നാമെല്ലാവരും മനുഷ്യരാണ് പരസ്പരം പിന്തുണയ്ക്കാൻ ഞങ്ങൾ ഇവിടെയുണ്ട് അതിനാൽ ജീവനക്കാരൻ പ്രതീക്ഷിക്കുന്നത് ചെയ്യാത്തതിനാൽ സ്ഥാപനത്തിന് സുഖകരമല്ലാത്ത പ്രക്രിയയാണ് ഇതെന്ന് ജീവനക്കാരൻ മനസ്സിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക പക്ഷേ ജീവനക്കാരനെ വിജയിപ്പിക്കാൻ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നു കൂടാതെ ജീവനക്കാർക്ക് കഴിയുന്നത്ര വിഭവങ്ങൾ നൽകുകയും ജീവനക്കാരനെ വിജയിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുക അതിനാൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് നോട്ടിൽ സഹായിക്കണം കൂടാതെ അവൾ അല്ലെങ്കിൽ അവൻ മുൻകാലങ്ങളിൽ നേരിട്ടേക്കാവുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിനായി മുന്നോട്ട് പോകാനുള്ള പ്രതീക്ഷ ജീവനക്കാരന് നൽകുക കൂടാതെ എന്നിട്ടും ജീവനക്കാരൻ മെച്ചപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവളെ അല്ലെങ്കിൽ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള വളരെ ബുദ്ധിമുട്ടുള്ള തീരുമാനം എടുക്കേണ്ടി വന്നേക്കാം അച്ചടക്ക പരാതി നടപടിക്രമങ്ങളുടെ ഉള്ളടക്കത്തിൽ വീണ്ടും ഈ പേപ്പറിൽ വില്യംസും റംബിൾസും നൽകിയ നിർദ്ദേശങ്ങൾ അടങ്ങിയിരിക്കണം അതിനാൽ അച്ചടക്ക പരാതി നടപടിക്രമങ്ങളിൽ തത്വങ്ങളുടെ ഒരു പ്രസ്താവന അടങ്ങിയിരിക്കണമെന്ന് അവർ നിർദ്ദേശിക്കുന്നു മറ്റ് കാര്യങ്ങൾക്കൊപ്പം അത് ഉപയോഗിക്കേണ്ട ഉദ്ദേശ്യങ്ങളും സ്വീകരിക്കേണ്ട സമീപനത്തിന്റെ സ്വഭാവവും വ്യക്തമാക്കുന്ന ഒന്ന് അതിനാൽ ജീവനക്കാരനിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ജീവനക്കാരന് അത് എങ്ങനെ നേടാനാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ചെറിയ പെരുമാറ്റദൂഷ്യങ്ങൾ അനൌപചാരികമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ ഒരു വശത്ത് ചെറിയ തെറ്റായ പെരുമാറ്റം അവഗണിക്കപ്പെടില്ലെന്ന് ജീവനക്കാരനെ അറിയിക്കുക പക്ഷേ മറുവശത്ത് അത് ആയിരിക്കില്ല ഇത് വളരെ ഗുരുതരമായ എന്തെങ്കിലും നൽകണമെന്നില്ല അതിനാൽ ജീവനക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട് ഓർഗനൈസേഷനിലേക്ക് വരുന്നതിൽ അവർക്ക് സുഖം തോന്നുന്നു സത്യസന്ധമായ തെറ്റുകൾ അവരുടെ മുന്നേറ്റത്തിൽ എടുക്കാൻ പോകുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നു ആരോപിക്കപ്പെടുന്ന തെറ്റായ പെരുമാറ്റം എങ്ങനെയെന്ന് അന്വേഷിക്കണം കൂടാതെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിലേക്ക് നയിക്കുന്ന ദുരാചാരമായി തരംതിരിച്ച പെരുമാറ്റങ്ങളുടെ ഒരു ലിസ്റ്റ് അതിനാൽ എന്താണ് ഗൌരവമായി എടുക്കേണ്ടതെന്ന് ജീവനക്കാരൻ അറിഞ്ഞിരിക്കണം കൂടാതെ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം അതിനാൽ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കും ജീവനക്കാരനും ഈ ലിസ്റ്റ് നിങ്ങളുടെ റഫറൻസിനായി ഉപയോഗിക്കാം ആരോപിക്കപ്പെടുന്ന തെറ്റായ പെരുമാറ്റം എങ്ങനെ അന്വേഷിക്കണം എന്നതിനുള്ള വ്യവസ്ഥകൾ ഒരു മീറ്റിംഗിൽ ജോലിക്കാരന് അവൾക്കോ അയാൾക്കോ എതിരായ കേസ് അവതരിപ്പിക്കുകയും അവളുടെയോ അവന്റെയോ വശം അവതരിപ്പിക്കാൻ അവസരം നൽകുകയും ചെയ്യുന്നു അതിനാൽ അച്ചടക്ക നടപടി ഉടനടി എടുക്കില്ലെന്ന് ജീവനക്കാരൻ അറിഞ്ഞിരിക്കണം ജീവനക്കാരന് ഒരു അവസരം നൽകും അവളുടെ അല്ലെങ്കിൽ അവന്റെ ജോലി മെച്ചപ്പെടുത്താനുള്ള ന്യായമായ അവസരം അച്ചടക്ക യോഗത്തിന് ശേഷം ജീവനക്കാരനെതിരെയുള്ള കേസ് ശരിവയ്ക്കുകയാണെങ്കിൽ ഉചിതമായ ഉപരോധങ്ങൾ പ്രയോഗിക്കുന്നതിന് അച്ചടക്ക നടപടിക്രമങ്ങൾ നൽകുന്നു ജീവനക്കാരൻ യുക്തിരഹിതമായ പെരുമാറ്റത്തിൽ ഏർപ്പെട്ടതായി തെളിയിക്കപ്പെട്ടാൽ ജീവനക്കാരനോട് എന്ത് ചെയ്യുമെന്ന് ജീവനക്കാരൻ അറിഞ്ഞിരിക്കണം അതിനാൽ എല്ലാം വ്യക്തമായി പട്ടികപ്പെടുത്തണം ഒരു അച്ചടക്ക യോഗത്തിന്റെ ഫലത്തിനെതിരെ അപ്പീൽ ചെയ്യാനുള്ള ഒരു ജീവനക്കാരന്റെ അവകാശം കേസിൽ മുമ്പ് ഇടപെടാത്ത ഒരു സീനിയർ മാനേജർക്ക് സാധാരണയായി നൽകാനുള്ള വ്യവസ്ഥ ശരിയായ അന്വേഷണത്തിനു ശേഷവും എടുക്കുന്ന തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാൻ ജീവനക്കാരന് അവകാശമുണ്ടെന്ന് ജീവനക്കാരൻ അറിഞ്ഞിരിക്കണം സ്വയം പ്രതിരോധിക്കാൻ സാധ്യമായ എല്ലാ അവസരങ്ങളും ജീവനക്കാരന് നൽകണം ജീവനക്കാരൻ പരാജയപ്പെടുകയാണെങ്കിൽ അത് വളരെ മോശമായിരിക്കും ഈ ലെക്ച്ചറിൽ നിങ്ങൾക്കായി ഇത്രമാത്രമാണുള്ളത് ജോലിസ്ഥലത്ത് ബുദ്ധിമുട്ടുള്ള ജീവനക്കാരെ നിങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ തുടരും കൂടാതെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനോ ജീവനക്കാരെ അച്ചടക്കത്തിലാക്കാനുള്ള അവസരം കുറയ്ക്കുന്നതിനോ ഹ്യൂമൻ റിസോഴ്സ് മാനേജർമാർ എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന കാര്യങ്ങളോടെ നമ്മൾ അവസാനിപ്പിക്കും അതിനാൽ ശ്രദ്ധിച്ചതിന് വളരെ നന്ദി കൂടാതെ ഇനിവരുന്ന പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് കുറച്ച് കൂടി സംസാരിക്കും